ഈ ഏകവചന അവിഭാജ്യ ഘടകങ്ങളെല്ലാം ഇവിടെ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നതിലൂടെ നമുക്ക് ആരംഭിക്കാം അതിനാൽ ∫1x dx എന്ന ഫോമിന്റെ ഇന്റഗ്രൽ ഉള്ളപ്പോൾ ഞാൻ ഇന്റഗ്രേഷൻ അൽപ്പം ശ്രദ്ധയോടെ ചെയ്യേണ്ടതായി നമ്മൾ കണ്ടു അതിനാൽ ഒന്ന് പ്രിൻസിപ്പൽ വാല്യു ഭാഗവും രണ്ടാമത്തേത് അവശിഷ്ട ഭാഗവും ആണ് ഇവയാണ് ഇവിടെയുള്ള നമ്മുടെ രണ്ട് സമവാക്യങ്ങൾ ഈ ഗ്രാഡ് ജി ഡോട്ട് എൻ ഹാറ്റ് കാരണം ഒരു പ്രശ്നമുണ്ടാകാൻ പോകുന്നു കാരണം എന്റെ ഈ കോണ്ടൂർ ഇന്റഗ്രൽ ആണ് r പ്രൈം ഇവിടെ നിശ്ചയിച്ചിട്ടുണ്ടെന്നും r മുഴുവൻ കോണ്ടൂരിലും പ്രവർത്തിക്കുന്നുവെന്നും പറയാം അതിനാൽ ഈ r′ നെ r ഹിറ്റ് ചെയ്യുന്ന ചില പോയിന്റുകൾ അവയായിരിക്കും അതാണ് നമ്മൾ ശരിയായി ശ്രദ്ധിക്കേണ്ട വിഷയം അതിനാൽ ഈ ഓരോ ഇന്റഗ്രലുകൾക്കും ഞാൻ കോണ്ടൂർ ശരിയായ രീതിയിൽ പരിഷ്ക്കരിക്കേണ്ടതുണ്ട് നമുക്ക് സമവാക്യം നോക്കാം നമുക്ക് സമവാക്യം 1 നോക്കാം അതിനാൽ ഇത് സമവാക്യം 1 ഇതാണ് എന്റെ പോയിന്റ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് അതിനാൽ സമവാക്യം 1 എന്നത് r′ ∈ V2 ആണ് ഞാൻ ഇവിടെ നിന്ന് വരുന്നു r′ ∈ V2 ശരിയാണെന്ന് ഉറപ്പാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങൾ V1 എന്താണെന്നും ഇവിടെ V1 ഉം V2 ഉം ആണ് എഴുതുന്നതെങ്കിൽ കോണ്ടൂർ ഏത് വഴിയാണ് വളയേണ്ടത് അത് r പ്രൈം ഇപ്പോഴും V2 ന് ചേരുന്ന തരത്തിൽ വളയണം അതിനാൽ ഈ ചെറിയ വളവ് ഉണ്ടാക്കുന്നതിനുള്ള മാർഗം ഇപ്പോൾ V2 ന്റെ ഉള്ളിലാണ് പോയിന്റ് r′ കാരണം ഞാൻ ഉപരിതലം അൽപ്പം ശരിയാക്കി മാറ്റിയിരിക്കുന്നു ഇത് ഞാൻ സൂം ഇൻ ചെയ്ത് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് കാണിക്കും ഇത് വളരെ ചെറിയ വൃത്തമാണ് ε ഉം ε ആയതിന്റെ ആരം 0 ലേക്ക് പ്രവണത കാണിക്കുന്നു അതിനാൽ എനിക്ക് പരിധിയുണ്ട് ഞാൻ ശരിക്കും ഉപരിതലത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല എപ്സിലോണിന്റെ പരിധി ഞാൻ 0 എടുക്കാൻ പോകുന്നു അതിനാൽ ഇവിടെയുള്ള ഈ പോയിന്റായ r′ ൽ V2 തുടരുന്നു r′ ഒന്നും അവശേഷിക്കുന്നില്ല r′ ആ ഘട്ടത്തിൽ അവശേഷിക്കുന്നു ഞാൻ മാറുകയാണ് അതിനു ചുറ്റുമുള്ള അതിർത്തി അതിർത്തി എന്നത് V1 നും V2 നും ഇടയിലുള്ള അതിർത്തിയാണ് ഞാൻ അതിരുകൾ ഈ വഴിക്ക് അൽപ്പം നീക്കി പക്ഷേ r പ്രൈം ഇപ്പോഴും അവിടെയുണ്ട് r′ ചലിക്കുന്നില്ല ഞാൻ അതിർത്തി ചെറുതായി ചലിപ്പിക്കുകയാണ് അതിനാൽ അതിർത്തിയിൽ r′ ഇടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആരംഭിച്ചത് കാരണം അതിർത്തിയാണ് V1 ലും V2 ലും അതിരുകൾ അപ്പോൾ നമ്മൾ പറഞ്ഞു ∫1x dx ന് ഒരു പ്രശ്നമുണ്ട് എനിക്ക് അത് ചെയ്യണം അതിർത്തി അൽപ്പം നീക്കുക ഞാൻ അതിർത്തി മറ്റൊരു വഴിക്ക് നീക്കുകയാണെങ്കിൽ r′ V1 ൽ വീഴും ഇപ്പോൾ അത് V2 ൽ തന്നെ തുടരുന്നു അതിനാൽ അതാണ് സമവാക്യം 1 ന്റെ ചെറിയ അതിർത്തി പരിഷ്ക്കരണം സമവാക്യം 2 ന് അതേ ലോജിക് എനിക്ക് മറ്റൊരു കോണ്ടൂർ നൽകും അതിനാൽ ഇത് വീണ്ടും V1 ഉം V2 ഉം ആണ് ഇതാണ് ഇവിടെ എന്റെ പോയിന്റ് അത് r′ ആണ് അതിനാൽ ഞാൻ ഇത് ഈ രീതിയിൽ പരിഷ്കരിക്കണം ഏത് വഴിക്കാണ് ഞാൻ അതിർത്തി വളയ്ക്കുന്നതെന്ന് വളരെ വ്യക്തമായി നിങ്ങൾക്ക് കാണിച്ചുതരുന്നതിനാണ് ഞാൻ ഇത് പെരുപ്പിച്ചു കാണിക്കുന്നത് വ്യക്തമായും അത് ε ദൂരത്തിന്റെ ഒരു വൃത്തമാണ് അത് 0 ലേക്ക് പോകും അതിനാൽ ഈ സമവാക്യത്തിൽ ഇപ്പോൾ r′ ഇതാണ് V 1 ൽ തുടരുന്നത് അതിനാൽ അങ്ങനെയാണ് നമ്മൾ ഈ അതിരുകൾ ശരിയാക്കുന്നത് ഞാൻ ലിമിറ്റ് എടുക്കാൻ പോകുകയാണെന്ന് ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം അതിനാൽ ഞാൻ അത് എങ്ങനെ വളയ്ക്കുന്നു എന്നത് ശരിക്കും പ്രധാനമാണോ ഒടുവിൽ ഞാൻ ε → 0 എടുക്കാൻ പോകുന്നു അതിരുകൾ താഴോട്ടോ മുകളിലേക്ക് വളയുകയോ നിങ്ങൾക്ക് വ്യത്യസ്ത ഉത്തരങ്ങൾ ലഭിക്കുമോ എന്ന് അതിനാൽ ഇത് സംയോജനത്തെ ആശ്രയിച്ചിരിക്കുന്നു അത് ശരിയാണോ എന്ന് നമ്മൾ കാണും അവിഭാജ്യ പ്രാധാന്യമുള്ളത് ഒരു വഴിയാണോ അതോ മറ്റേത് ശരിയാണോ എന്ന് നമ്മൾ കാണും അതിനാൽ ഈ ഭാഗം വ്യക്തമാണോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഞാൻ ഇതിനകം തന്നെ നിങ്ങളുടെ ഉത്തരം നൽകിയിട്ടുണ്ട് നിങ്ങൾ ഏത് രീതിയിൽ കോണ്ടൂർ വളയ്ക്കുന്നു എന്നത് പ്രധാനമാണ് രണ്ട് സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് വ്യത്യസ്ത ഉത്തരങ്ങൾ ലഭിക്കും അതിനാൽ ഇത് എങ്ങനെ ശരിയായി ചെയ്യാമെന്ന് നോക്കാം ഇനി നമുക്ക് ഈ ഇന്റഗ്രലുകൾ എന്ന് വിലയിരുത്താം അതിനാൽ കൃത്യമായ കണക്കുകൂട്ടൽ ഞാൻ കാണിക്കുന്നതിന് മുമ്പ് സംയോജനത്തിൽ സംഭവിക്കാവുന്ന ചില അടിസ്ഥാന തെറ്റുകൾ ഉണ്ട് അവ ഒഴിവാക്കാൻ ഞാൻ നിങ്ങൾക്ക് വളരെ ലളിതമായ ചില സംയോജനങ്ങൾ കാണിക്കാൻ പോകുന്നു അതിനാൽ കേസ് 1 ഇതാണ് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സംയോജിപ്പിക്കുകയാണ് എന്റെ ഡിഫറൻഷ്യൽ എലമെന്റ് ഇവിടെ dl ആണെന്നും ഞാൻ 0 ൽ നിന്ന് l ലേക്ക് പോകുകയാണെന്നും പറയാം അങ്ങനെയെങ്കിൽ എനിക്ക് മാത്രമുണ്ടെങ്കിൽ ഇതിന്റെ ഭൌതിക വ്യാഖ്യാനം എന്താണ് ∫dl എന്താണ് ഫിസിക്കൽ ഇന്റർപ്രെട്ടേഷൻ എന്താണ് ആദ്യം ഉത്തരം വിദ്യാർത്ഥി L L ഞാൻ എന്താണ് ചെയ്യുന്നത് 0 നും L നും ഇടയിലുള്ള സ്ട്രിംഗിന്റെ ദൈർഘ്യം എങ്ങനെ പറയണമെന്ന് ഞാൻ അളന്നിട്ടുണ്ട് പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥി പോലും ഉത്തരം 0 മുതൽ L വരെ എന്ന് പറയും ഇപ്പോൾ നമുക്ക് അതേ കണക്കുകൂട്ടൽ അല്പം വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാം എനിക്ക് ഉണ്ടെന്ന് കരുതുക ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു ഇവിടെ നിന്ന് ഇവിടെ ഈ പോയിന്റിലേക്ക് പോകുന്നു നമുക്ക് ഈ പോയിന്റ് a എന്ന് വിളിക്കാം ഇതിനെ b എന്ന് വിളിക്കാം എന്ന് വിലയിരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഞാൻ കോണ്ടൂരിലൂടെ പോയിന്റ് a മുതൽ b വരെ പോകുന്നു ഇന്റഗ്രൽ dl കണ്ടെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ താമസിക്കുന്നു അവിഭാജ്യഘടകം ഈ കോണ്ടൂർ ആണ് അതിനാൽ ഇത് ഇവിടെയുള്ള കേസ് 1 ൽ നിന്ന് വരുന്ന ε ആരത്തിന്റെ അർദ്ധവൃത്തമാണെങ്കിൽ ഈ ഉത്തരം എന്താണെന്ന് നിങ്ങൾ പറയണം πε ആയ സ്ട്രിംഗിന്റെ നീളം ശരിയാണ് ഇപ്പോൾ മറുവശത്ത് നിങ്ങൾ ഈ ഇന്റഗ്രൽ ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ നമുക്ക് പോളാർ കോർഡിനേറ്റുകൾ പറയാം അതിനാൽ നിങ്ങൾ ഇതുപോലെ സമന്വയിപ്പിക്കുമ്പോൾ ഇതാണ് നിങ്ങളുടെ തീറ്റ എന്ന് നിങ്ങൾ ഇത് എഴുതിയതായി കരുതുക അപ്പോൾ സംയോജനത്തിന്റെ പരിധികൾ എന്തൊക്കെയാണ് എവിടെ നിന്ന് എവിടേക്ക് അല്ല യഥാർത്ഥ ആരംഭ പോയിന്റിൽ നിന്ന് ഞാൻ എവിടെ നിന്നാണ് ആരംഭിക്കുന്നത് π അല്ലെങ്കിൽ π വിദ്യാർത്ഥി π എന്തുകൊണ്ട് π എനിക്കും π എഴുതാൻ കഴിയുമോ അന്തിമ ഇന്റഗ്രേഷൻ അവസാന ഇന്റർ പോയിന്റ് വിദ്യാർത്ഥി 0 0 ഡിഫറൻഷ്യൽ ഘടകം എന്താണ് വിദ്യാർത്ഥി R dl വിദ്യാർത്ഥി ε dθ ε dθ നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത് നിങ്ങൾക്ക് − πε ലഭിക്കും അപ്പോൾ ഇതിൽ എന്താണ് പ്രത്യേകത എനിക്ക് πε ലഭിക്കേണ്ടതായിരുന്നു കാരണം ഞാൻ ഈ π യുടെ നീളം അളക്കുന്നു ശരിയാണ് dθ എന്നത് ഘടികാരദിശയിൽ വലത് ഘടികാരദിശയിൽ ഏത് ദിശയിലാണെന്ന് dθ എന്നതിൽ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ dl ഘടികാരദിശയിലാണ് അതിനാൽ dl യഥാർത്ഥത്തിൽ − ε dθ ആണ് അതിനാൽ നിങ്ങൾ ഈ ഇന്റഗ്രൽ ശ്രദ്ധാപൂർവ്വം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു തെറ്റാണിത് അതിനാൽ വാസ്തവത്തിൽ ഇത് തെറ്റാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് പറയാം അപ്പോൾ എനിക്ക് ശരിയായ ഉത്തരം ലഭിക്കും πε അതിനാൽ ഈ ഇന്റഗ്രൽ നമ്മൾ വിലയിരുത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇവയാണ് ഇപ്പോൾ ഞാൻ ലളിതമായ കേസ് ഒഴിവാക്കട്ടെ നമുക്ക് നമ്മുടെ അവിഭാജ്യത നോക്കാം അപ്പോൾ നമ്മുടെ അവിഭാജ്യഘടകം എന്താണ് അതിനാൽ എനിക്ക് ഒരു കേസിൽ ഉണ്ട് നമ്മൾ ഇവിടെ തിരിഞ്ഞുനോക്കുന്നു ഒരു കേസ് അത് ഉയരുകയും മറ്റേ കേസ് വലത്തേക്ക് പോകുകയും ചെയ്യുന്നു അതിനാൽ നമുക്ക് ആദ്യം കേസ് എടുക്കാം അപ്പോൾ അത് അങ്ങനെയാണ് അത് ശരിയാണ് ഇവിടെ നമ്മുടെ അവിഭാജ്യത എന്താണ് നമുക്ക് ഇതിനെ S എന്ന് വിളിക്കാം ഇത് പോസിറ്റീവ് വശത്താണ് അതിനാൽ അത് S നമ്മൾ കണക്കാക്കാൻ ശ്രമിക്കുന്ന പദമാണ് ഏത് വഴിയാണ് nˆ ഏത് വഴിയാണ് nˆ മുകളിലേക്കോ താഴേക്കോ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കൂ ഇവിടെ ഏത് വഴിയായിരുന്നു ഇത് nˆ ആയിരുന്നു ഇതിലും nˆ ആയിരുന്നു അതിനാൽ nˆ തുടരുന്നു ഉദാഹരണത്തിന് nˆ ഇവിടെ ഇതുപോലെയാണ് ഇവിടെ നിന്ന് മുകളിലാണ് അത് പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നു ഇപ്പോൾ എന്താണ് ∇g · nˆ അതിനാൽ ∇g എന്നത് നമ്മൾ മൈനസ് ആയി എഴുതിയതാണ് jk4H1kρ എന്നത് ശരിയാണ് ഒരു മൈനസ് ചിഹ്നത്താൽ അത് ഓഫാണ് നമുക്ക് തിരികെ പരിശോധിക്കാം നമ്മൾ മുമ്പ് ∇g ഉരുത്തിരിഞ്ഞതാണ് ∇g എന്നത് jk 4H1 ആണ് അതിനാൽ നമുക്ക് ഇവിടെ ശരിയായ പദപ്രയോഗം ഉപയോഗിക്കാം ഇവിടെ മൈനസ് അടയാളം ഒന്നുമില്ല ഇപ്പോൾ r ഇവിടെ എന്തായിരുന്നു ഇതായിരുന്നു r− rˆ യൂണിറ്റ് വെക്റ്റർ അതിനാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ അവിഭാജ്യഘടകം നോക്കാം ഏതാണ് nˆ ഈ പോയിന്റ് ഇവിടെ ഇത് എന്റെ r′ ഇതാണ് എന്റെ പോയിന്റ് r എന്ന് നമുക്ക് പറയാം അതിനാൽ r − rˆ അത് ഏത് വഴിയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഞാൻ അർത്ഥമാക്കുന്നത് r − rˆ എന്നത് എന്റെ റേഡിയൽ ഔട്ട്വേർഡ് വെക്ടറാണ് ഈ സർക്കിളിനൊപ്പം S ഏത് വഴിയാണ് nˆ അതേ ദിശ അതിനാൽ ഇവിടെ nˆ എന്നത് r− r′ ന് തുല്യമാണ് കാരണം r ഇവിടെ r− r′ എല്ലായ്പ്പോഴും ഈ r′ ഈ അർദ്ധവൃത്തത്തിന്റെ കേന്ദ്രമായി നിശ്ചയിച്ചിരിക്കുന്നതുപോലെ ആയിരിക്കും അത് ടെസ്റ്റിംഗ് പോയിന്റായി നിശ്ചയിച്ചിരിക്കുന്നു വിദ്യാർത്ഥി ആർ r എന്നത് സംയോജനത്തിന്റെ വേരിയബിളാണ് ഞാൻ ഇവിടെ നിന്ന് സർക്കിളിന് മുകളിലൂടെ പോകുന്നു ഇത് ശരിയാണ് അതിനാൽ ഞാൻ വിലയിരുത്തുന്നത് പ്രധാന മൂല്യമല്ല അവശിഷ്ട ഭാഗത്തെ മാത്രമാണ് പ്രധാന മൂല്യം ഇവിടെ അവസാനിക്കുകയും ഇവിടെ നിന്ന് ആരംഭിക്കുകയും ചെയ്യുന്നു അതിനാൽ ഇത് മാത്രമാണ് ഞാൻ കണക്കാക്കുന്നത് S ഇന്റഗ്രൽ അതിനാൽ nˆ എന്നത് rˆ ന് തുല്യമാണ് അതിനാൽ ഞാൻ വിലയിരുത്തുമ്പോൾ എല്ലാം ഇവിടെ ∇g nˆ എന്നിവയുടെ ദിശയിൽ ഇടുക എനിക്ക് എന്താണ് ലഭിക്കേണ്ടത് ∇g ന്റെ ദിശ സാധാരണ rˆ ആണ് എനിക്ക് 1 ലഭിക്കും അതിനാൽ എനിക്ക് എല്ലാ സ്ഥിരാങ്കങ്ങളും jk4 ഇന്റഗ്രൽ ആയി എഴുതാം ഇപ്പോൾ ഞാൻ എന്ത് എഴുതണം π മുതൽ 0 വരെയുള്ള ലളിതമായ ഉദാഹരണത്തിലും എന്താണ് H1kρ കൂടാതെ മറ്റെന്താണ് വിദ്യാർത്ഥി ε വിദ്യാർത്ഥി മൈനസ് − ε dθ അപ്പോൾ എനിക്ക് ശരിയായ വ്യാഖ്യാനം ലഭിക്കും ഉദാഹരണത്തിന് ഞാൻ H1 എന്നതിനുപകരം H1 ഇട്ടാൽ 1 എന്നെഴുതിയാൽ ഈ വഴി പിന്തുടരുകയാണെങ്കിൽ എനിക്ക് ലഭിക്കുന്ന ഈ സ്ട്രിംഗിന്റെ നീളം എനിക്ക് ലഭിക്കണം ഇപ്പോൾ ഞാൻ H1 എന്നതിന്റെ ഏകദേശ കണക്ക് ഉപയോഗിക്കുന്നിടത്താണ് ഞാൻ എടുക്കാൻ പോകുന്നത് അതിനാൽ എനിക്ക് ആ ഏകദേശ കണക്ക് ശരിയായി ഉപയോഗിക്കാനാകും അതിനാൽ നമ്മൾ മുമ്പ് കണ്ട ഏകദേശ കണക്കാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഗം അതിനാൽ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ പോകുന്നു ഈ സാഹചര്യത്തിൽ ഇവിടെ എന്താണ് നമുക്ക് യഥാർത്ഥത്തിൽ എല്ലാം എഴുതാം അതിനാൽ ഞാൻ പകരം വയ്ക്കുന്നു എനിക്ക് kε2 jπ 2kεdθ ഉണ്ടാകും അത് ശരിയാണോ എനിക്കറിയാവുന്നതും എനിക്കറിയാവുന്നതുമായ എല്ലാത്തിനും ഞാൻ പകരം വയ്ക്കുന്നു ഒടുവിൽ ഞാൻ പരിധി എടുക്കാൻ പോകുന്നു നമുക്ക് ഇതിനെ എന്ന് വിളിക്കാം അതിനാൽ ഞാൻ എടുക്കാൻ പോകുന്നു ഈ അവിഭാജ്യ ഘടകത്തെ പൂർണ്ണമായി വിലയിരുത്താതെ പരിധിയിലെ യഥാർത്ഥ ഭാഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാൻ കഴിയും എനിക്ക് ε2 ലഭിക്കും വൃത്തത്തിന്റെ അർദ്ധവൃത്തത്തിന്റെ ദൈർഘ്യം അതിനാൽ ആ പദം 0 ലേക്ക് പോകുന്നു ഇടതുവശത്തുള്ള പദമാണ് വലതുവശത്ത് രണ്ടാമത്തേത് മാത്രം അവശേഷിക്കുന്ന പദമാണ് അതിനാൽ എനിക്ക് − jkε4 j2πk 1ε ലഭിക്കാൻ പോകുന്നു വിദ്യാർത്ഥി − π ലേക്ക് π ലേക്ക് വിദ്യാർത്ഥി 12 അത് മാത്രമാണ് അവശേഷിക്കുന്നത് അപ്പോൾ ε യ്ക്ക് എന്ത് സംഭവിച്ചു ε പോയി ഒരു k പോയി അവിടെ ഒരു − j × j 1 ഉം ശേഷിക്കുന്നത് − 1 ഉം ആണ് അപ്പോൾ ഉത്തരം വിദ്യാർത്ഥി 12 12 അല്ലെങ്കിൽ 12 വിദ്യാർത്ഥി − 12 − 12 മൈനസ് പോയി j × j 1 ആണ് എനിക്ക് ഒരു − r അത് വളരെ വ്യക്തമാണ് ഇനി നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് വരാം എനിക്ക് വളരെ സാമ്യമുള്ള എന്നാൽ വിപരീതമായി രൂപഭേദം വരുത്തിയ ഒരു കോണ്ടൂർ ഇപ്രകാരമാണ് ഇതാണ് എന്റെ പോയിന്റ് r′ ഇതാണ് എന്റെ പോയിന്റ് r ഏത് വഴിയാണ് nˆ മുമ്പത്തെപ്പോലെ തന്നെ അത് പുറത്തേക്ക് ആയിരിക്കണം അതിനാൽ ഈ കോണ്ടൂരിൽ ഇത് എന്റെ nˆ ഏത് വഴിയാണ് എന്റെ ഈ വെക്റ്റർ r മുകളിലേക്കോ താഴേക്കോ വിദ്യാർത്ഥി താഴേക്ക് താഴോട്ട് കാരണം അതിന്റെ r − r′ പകരം അതിനാൽ ഇതാണ് എന്റെ r ഹാറ്റ് അതിനാൽ ഈ അവിഭാജ്യഘടകത്തിൽ ഇപ്പോൾ I2 എനിക്ക് s മൈനസ് ഗ്രേഡ് g r r പ്രൈം ഡോട്ട് n ഹാറ്റ് dl എന്താണ് സംഭവിക്കുന്നതെന്ന് എഴുതാം അതിനാൽ ഞാൻ j k എന്നത് 4 കൊണ്ട് എഴുതും ഇപ്പോൾ ഞാൻ pi യുടെ അതേ പരിധികൾ ഉപയോഗിക്കും കാരണം ഞാൻ മുകളിലേക്കോ താഴേക്കോ പോയാലും എനിക്ക് സ്ട്രിംഗിന്റെ ദൈർഘ്യം ലഭിക്കണം അതിനാൽ നമുക്ക് അത് സങ്കീർണ്ണമാക്കേണ്ടതില്ല നമുക്ക് അതിനെ H1kρ എന്നിങ്ങനെ നിലനിർത്താം ഇപ്പോൾ എനിക്ക് നൽകാൻ പോകുന്ന rˆ · nˆ എന്നതിൽ ഞാൻ ശ്രദ്ധിക്കേണ്ട പദമാണ് വിദ്യാർത്ഥി മൈനസ് ചിഹ്നം മൈനസ് ചിഹ്നം അതിനാൽ ഒരു − 1 ഉണ്ട് എനിക്ക് ഒരു −εdθ ഉണ്ട് അത് മാത്രമാണ് എനിക്ക് അവശേഷിക്കുന്നത് അതിനാൽ ഇത് ഒഴികെ മുകളിലുള്ള പദത്തിന് സമാനമാണ് വിദ്യാർത്ഥി മൈനസ് ഒരു അധിക മൈനസ് ചിഹ്നം അതിനാൽ എനിക്ക് എന്താണ് ലഭിക്കേണ്ടത് വിദ്യാർത്ഥി 1 by 2 12 അതിനാൽ ഞാൻ എങ്ങനെ സംയോജനം നടത്തിയെന്നത് പ്രധാനമാണ് ഒരു സാഹചര്യത്തിൽ എനിക്ക് ഒരു − r ലഭിക്കുന്നു മറ്റൊന്നിൽ എനിക്ക് a r ലഭിക്കും അതിനാൽ ഞാൻ താഴെ നിന്ന് സമീപിച്ചാൽ ∇g ന് ഉപരിതലത്തിൽ ഉടനീളം ഒരു വിച്ഛേദം ഉണ്ടെന്ന് നിർദ്ദേശിക്കുന്നു അല്ലെങ്കിൽ മുകളിൽ നിന്ന് ഞാൻ സമീപിച്ചാൽ ഒരു വ്യത്യാസമുണ്ട് അരുത് സംയോജനത്തിൽ നമുക്ക് ഉണ്ടായിരുന്ന എല്ലാ നിബന്ധനകളിലേക്കും തിരിഞ്ഞുനോക്കുമ്പോൾ എനിക്ക് ഉള്ളപ്പോൾ ഇത് ഒരേയൊരു പ്രശ്നമുള്ള പദമായിരുന്നു ഒരു ഏകത്വമുണ്ടെങ്കിൽ പോലും g1 ന്റെ ഇന്റഗ്രൽ ഉൾപ്പെടുന്ന പദം ഞാൻ നോക്കിയപ്പോൾ logx ന്റെ അവിഭാജ്യമാണ് പരിമിതമായി മാറിയത് അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല പ്രശ്നകരമായ ഒരേയൊരു പദമാണിത് നിങ്ങൾ ഇത് ശ്രദ്ധാപൂർവ്വം അടുക്കുന്നത് ഇങ്ങനെയാണ് ഇത് എല്ലാ ഉപരിതല ഫോർമുലേഷനുകളുടെയും സവിശേഷതയാണ് അവിടെ ഏകത്വവും 2D യുടെ കാര്യത്തിൽ നിങ്ങൾക്ക് g ഉം ∇g ഉം ഉണ്ടായിരുന്നു ∇g അവിഭാജ്യമായിരുന്നില്ല 3D യുടെ കാര്യത്തിൽ നിങ്ങൾക്ക് g ∇g എന്നിവ ഉണ്ടായിരിക്കും ∇g സംയോജിപ്പിക്കാവുന്നതല്ല അതിനാൽ നിങ്ങൾ ഉപരിതലത്തെ അതിനനുസൃതമായി രൂപഭേദം വരുത്തണം എന്നാൽ 3D യിൽ നിങ്ങൾ അതിന്റെ ഉപരിതലത്തെ രൂപഭേദം വരുത്തുന്ന ഒരു വരയായിരിക്കില്ല നിങ്ങൾ ചുറ്റും ഒരു അർദ്ധഗോള പാത്രം ഇടുന്നു അതിനാൽ ആ സംയോജനം കുറച്ചുകൂടി വെല്ലുവിളിയായി മാറുന്നു പക്ഷേ ആശയം ഒന്നുതന്നെയാണ് കാര്യത്തിന്റെ ഇരുവശത്തും ഒന്നിന്റെ വിച്ഛേദം ഉണ്ടാകും അതിനാൽ അത് ഉപരിതല സമഗ്ര സമവാക്യങ്ങളുടെ ഭാഗത്തിന്റെ അവസാനത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു അതിനാൽ കൂടുതൽ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ∇g · nˆ അല്ലെങ്കിൽ ഇതിലെ മറ്റേതെങ്കിലും ചോദ്യങ്ങൾ നമ്മൾ എങ്ങനെ വിലയിരുത്തിയെന്ന് ഈ ഭാഗം വ്യക്തമാണോ